ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ കോഴ്സിലെ പത്താം അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നു നാം ഡേറ്റ അക്യുസിഷൻ സിസ്റ്റംസിനെകുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പ്രബോധന ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇവ ഇത്രയും പ്രാധാന്യമർഹിക്കുന്നത് എന്നു പറയാം ആദ്യത്തെ രണ്ട് അദ്ധ്യായങ്ങളിൽ നാം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ പിരമിഡ് കണ്ടിരുന്നു അഡ്വാൻസ്ഡ് ഓട്ടോമേഷന്റെ ഒരു പ്രധാനലക്ഷണം എന്തെന്നാൽ അങ്ങോട്ടുമിങ്ങോട്ടും വളരെയധികം ഡേറ്റ കടന്നുപോകുന്നുണ്ട് ഓട്ടോമേഷൻ പിരമിഡിന്റെ ഓരോ ലെയറിലും റിയൽ ടൈം കമ്പ്യൂട്ടിംഗ് ചെയ്യുന്ന നിരവധി കമ്പ്യൂട്ടറുകളുണ്ട് ഇവയിലേക്ക് ആണ് ഡേറ്റ കടന്നുപോകുന്നത് ഇവ കൺട്രോൾ ഒപ്ടിമൈസേഷൻ മുതലായവ ചെയ്യുന്നതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ നിർവഹിക്കാൻ സാധിക്കുന്നത് അതായത് ഒരു ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് വളരെയധികം ഡേറ്റയുടെ ഒഴുക്ക് കാണാൻ സാധിക്കും പൊതുവേ ഡേറ്റ വരുന്നത് വ്യാവസായിക ഉപകരണങ്ങളിൽ നിന്നാണ് ഈ ഡേറ്റ സെൻസർസ് വഴി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എത്തുന്നു എങ്ങനെയാണ് പ്രോസസ് ക്വാണ്ടിറ്റീസ് സെൻസ് ചെയ്യപ്പെടുന്നത് എന്ന് നാം പഠിച്ചിരുന്നു ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് ഒരു ഭാഗത്ത് സെൻസർസുമായും മറു ഭാഗത്ത് കംപ്യൂട്ടറുമായും ഇൻറർഫേസ് ചെയ്യുന്ന ഡേറ്റ അക്വിസിഷൻ സിസ്റ്റത്തോടു കൂടിയാണ് പൊതുവേ അനലോഗ് ഡേറ്റ അവയുടെ ഭൌതികരൂപത്തിൽ നിന്ന് ഇലക്ട്രിക്കൽ രൂപത്തിലേക്ക് മാറുന്നു അതിനുശേഷം ഡേറ്റ അക്വിസിഷൻ സിസ്റ്റംസ് ഡിജിറ്റൽ രൂപത്തിൽ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നു ഇവയെ കമ്പ്യൂട്ടറിനു അകത്തുള്ള അൽഗോരിതംസ് ഉപയോഗിക്കുന്നു വിവിധതരം പ്രൊസസിങ്ങിനു ശേഷം അവയെ മറ്റു കമ്പ്യൂട്ടറുകളിലേക്ക് അയക്കുന്നു ഇവ ഓട്ടോമേഷന്റെ വിവിധ ലെവലുകളിൽ ഉപയോഗിക്കപ്പെടുന്നു സെൻസർസിൽ നിന്നും വരുന്ന ഡേറ്റ എങ്ങനെ കമ്പ്യൂട്ടറിന് അകത്ത് എത്തുന്നു അല്ലെങ്കിൽ ഡിജിറ്റൽ ഡേറ്റ എങ്ങനെ നേടുന്നു എന്നതാണ് ഇന്നു നാം പഠിക്കാൻ പോകുന്നത് അടുത്തതായി പ്രബോധന ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാം ഡേറ്റ അക്വിസിഷൻ സിസ്റ്റംസിന്റെ ഘടനയും ഘടകങ്ങളും മനസ്സിലാക്കാം അടുത്തതായി സാംപ്ലിങ് ക്വാൺടൈസേഷൻ എന്നീ പ്രക്രിയകളുടെ അടിസ്ഥാനം മനസ്സിലാക്കാം ഡിജിറ്റൽ ഡേറ്റയിൽ കൺടിന്യുസ് പ്രൊസസ്സ് പോലെ എല്ലാ പോയ്ന്റ്സും ലഭ്യമല്ല സാംപ്ലിങ് ടൈമിലെ ഇൻറർവെല്ലിലെ പോയ്ന്റ്സ് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ക്വാൺടൈസേഷൻ പ്രധാനമാണോ അല്ലയോ എന്നുള്ളത് കമ്പ്യൂട്ടറിനെ ആശ്രയിച്ചിരിക്കും 8 ബിറ്റ് കമ്പ്യൂട്ടർ ആണെങ്കിൽ പ്രധാനമാണ് 32 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിൻറ് കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇത് പ്രധാനമല്ല എന്തായാലും സാംപ്ലിങ് ക്വാൺടൈസേഷൻ എന്നീ പ്രക്രിയകളുടെ അടിസ്ഥാനപരമായ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കാം നാം ചില സർക്യൂട്ട് രൂപ കല്പനകളും കാണുന്നതായിരിക്കും അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായി ഇൻറർഫേസ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നൽസ് ആയി മാറുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഇത്രയും ആണ് അടിസ്ഥാനമായുള്ള ലക്ഷ്യങ്ങൾ ഡേറ്റ അക്വിസിഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി ഈ രേഖചിത്രം നോക്കുക ഇതിന്റെ നിർവചനം ഇങ്ങനെയാണ് ഇത് ഭൌതികമായ സിഗ്നൽസ് സ്വീകരിക്കാൻ ഉള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഘടകങ്ങളുടെ ഒരു ശേഖരമാണ് ഇതാണ് പ്രൊസസ്സ് ഡേറ്റ ആദ്യമായി സിഗ്നൽ കണ്ടീഷനിംഗ് മോഡ്യൂളിൽ പ്രവേശിക്കുന്നു ഇത് സീരിയൽ ഡേറ്റയും ആകാം ഇത് പി എൽ സി കളിലൂടെയോ ആക്ചുവെറ്ററിലൂടെയോ കടന്നുപോകാം അവസാനമായി ഡേറ്റ അക്വിസിഷൻ പ്രൊസസ്സ് വഴി ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് കടക്കുന്നു ഡേറ്റ ഇലക്ട്രോണിക് ബോർഡ് വഴി കമ്പ്യൂട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടു തരം സോഫ്റ്റ്വെയർ കാണാൻ സാധിക്കും ഇവ രണ്ടു കാര്യങ്ങളാണ് ചെയ്യുന്നത് ആദ്യമായി കാർഡുകളെ ഡേറ്റ കമ്പ്യൂട്ടറിലേക്കോ മറ്റു ഇൻറർഫേസുകളിലേക്കോ കൈമാറാൻ സഹായിക്കുന്നു രണ്ടാമത്തേത് ഡേറ്റയുടെ യഥാർത്ഥത്തിലുള്ള ഉപയോഗത്തിനു തന്നെയാണ് ഡിസ്പ്ലേ ഡിസിഷൻ മേക്കിങ് ട്രെൻഡിങ് അലാം ജനറേഷൻ തുടങ്ങിയവയാണ് ഈ ഉപയോഗങ്ങൾ ഇതിൽ ചില ഡേറ്റ കമ്പ്യൂട്ടറിൽ തന്നെ ഉപയോഗിക്കും മറ്റുചിലത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി സിസ്റ്റത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അയക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് യഥാർത്ഥത്തിലുള്ള കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആകുന്നു നമ്മൾ മുഖ്യമായും ശ്രദ്ധിക്കാൻ പോകുന്നത് പ്ലാന്റിലെ ഉപകരണങ്ങളിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ എത്തുന്ന ഈ ഭാഗമാണ് ആദ്യമായി ബ്ലോക്ക് ഡയഗ്രം കണ്ടു പ്രധാനപ്പെട്ട ധർമ്മം മനസ്സിലാക്കാം ഇതാണ് ഫിസിക്കൽ പ്രോസസ്സ് ഇതാണ് സെൻസർസ് ഇതുവരെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൽ സെൻസർസിൽ തന്നെ സിഗ്നൽ കണ്ടീഷനിംഗ് ഉണ്ടാകാറുണ്ട് ഇതുകൂടാതെ ഡേറ്റ അക്വിസിഷൻ കാർഡിന്റെ ഭാഗമായി ആംപ്ലിഫിക്കേഷൻ പോലെയുള്ള സിഗ്നൽ കണ്ടീഷൻ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയുള്ള അനലോഗ് സിഗ്നൽ കണ്ടീഷനിംഗ് ആണ് ഇവിടെ ഉള്ളത് അടുത്തതായി സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ആണ് അതിനുശേഷം അനലോഗ് റ്റു ഡിജിറ്റൽ കൺവെർട്ടർ അഥവാ എ ഡി സി യിലൂടെ സിഗ്നൽ ഡിജിറ്റൽ ഡൊമൈനിൽ പ്രവേശിക്കുന്നു അനലോഗ് റ്റു ഡിജിറ്റൽ കൺവെർട്ടറിന്റെ ഔട്ട്പുട്ടിൽ പ്രത്യേക സാംപ്ലിങ് ഇൻസ്റ്റന്റിൽ അനലോഗ് വാല്യുവിനെ പ്രതിനിധീകരിക്കുന്ന ബിറ്റ്സ് ലഭിക്കുന്നു ഇതിനുശേഷം ബിറ്റ്സ് കമ്പ്യൂട്ടറിലേക്ക് കൈമാറേണ്ടതുണ്ട് കമ്പ്യൂട്ടറിനെ ഡിജിറ്റൽ ഡേറ്റ സ്വീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻറർഫേസിങ് മെക്കാനിസം ആവശ്യമുണ്ട് ഈ ഭാഗം ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം ഡി എ എസ് എന്നും അറിയപ്പെടുന്നു ഈ സെൻസിംഗ് ഭാഗം സെൻസറിൽ നിന്നാണ് വരുന്നത് ഇത് സിഗ്നൽ കണ്ടീഷനിങിന്റെ ഭാഗമല്ല അടുത്തതായി ഇലക്ട്രിക്കൽ സിഗ്നൽ കണ്ടീഷനിംഗ് ആണുള്ളത് അതിനുശേഷം മൾട്ടിപ്ലക്സിംഗ് സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്നിവ വരുന്നു മൾട്ടിപ്ലക്സിംഗ് എന്നാൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്നാണ് ഉദ്ദേശിച്ചത് നിരവധി അനലോഗ് സെൻസർസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചാനലുകൾ സ്കാൻ ചെയ്യാൻ സാധിക്കും ഇതാണ് മൾട്ടിപ്ലക്സിംഗ് രൂപമാറ്റം വരുന്ന ചെറിയ ഇടവേളയിൽ സിഗ്നൽ സാംപ്ലിങ് ആൻഡ് ഹോൾഡിങ് ചെയ്യപ്പെടുന്നു എ ഡി സി കൺവേർഷൻ എന്നാൽ സിഗ്നലിനെ ഡിജിറ്റൽ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് അടുത്തത് കംപ്യൂട്ടറുമായി ഇൻറർഫേസ് ചെയ്യുകയാണ് അവസാനമായി ഇത് ഡേറ്റ അക്വിസിഷൻ ബോർഡിന്റെ കർശനമായ ഉള്ള ഭാഗമല്ല പക്ഷേ ഇത് റിയൽ അക്വിസിഷന്റെ ഭാഗമാണ് പൊതുവേ ഡേറ്റ അക്വിസിഷൻ വെൻഡർസ് ഇത്തരം ഘടകങ്ങൾ മാത്രമല്ല സോഫ്റ്റ്വെയർ കൂടി നൽകുന്നുണ്ട് ഇതുവഴി ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുക സ്കാൻ ചെയ്യുക ശേഖരിക്കുക ട്രെൻഡ് ചെയ്യുക അനലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇത്രയും ആണ് ഒരു ഡേറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൽ നാം ചെയ്യുന്നത് സിഗ്നൽ കണ്ടീഷനിങിൽ ആദ്യത്തെ കാര്യം ആംപ്ലിഫിക്കേഷനാണ് ഇതു വളരെ പ്രധാനമാണ് വിശദമായി പിന്നീട് പഠിക്കാം ഓരോ എഡി കൺവെർട്ടറിനും അതിന്റെതായ ഡൈനാമിക് റേഞ്ച് ഉണ്ട് എഡി കൺവെർട്ടറിന്റെ ഇൻപുട്ട് പോർട്ടിൽ നൽകുന്ന അനലോഗ് സിഗ്നൽ ഡൈനാമിക് റേഞ്ച് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വലിയ അപ്രോക്സിമേഷൻ എറർ കാണപ്പെടുന്നു അതിനാൽ റസല്യൂഷൻ വർദ്ധിപ്പിക്കാനായി സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ് ഐസലേഷൻ ആവശ്യം ആകാൻ കാരണം ഫീൽഡ് സിഗ്നൽസ് ചിലപ്പോൾ വലുതായിരിക്കും ഉദാഹരണത്തിന് അനലോഗ് സിഗ്നൽസ് പൊതുവേ സിംഗിൾ എൻഡഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആയാണ് വരുന്നത് സിംഗിൾ എൻഡഡ് എന്നാൽ അനലോഗ് വോൾട്ടേജിന്റെ ഈ വാല്യൂ ഗ്രൌണ്ടിനെ സംബന്ധിച്ചാണ് നൽകിയിരിക്കുന്നത് അതായത് എഡി കൺവെർട്ടർ ഗ്രൌണ്ട് ഉള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ആണ് നിങ്ങൾ ഇത് സിംഗിൾ എൻഡഡ് മോഡിൽ പ്രയോഗിക്കുമ്പോൾ എഡി കൺവെർട്ടർ ഈ വോൾട്ടേജ് അളക്കുന്നത് അതിന്റെ സ്വന്തം ഗ്രൌണ്ടിനെ സംബന്ധിച്ചാണ് അതിനുശേഷമാണ് വാല്യൂവിനെ കൺവേർട്ട് ചെയ്യുന്നത് നേരെമറിച്ച് നിങ്ങളൊരു ഡിഫറൻഷ്യൽ ഇൻപുട്ട് നൽകുമ്പോൾ എഡി കൺവെർട്ടറിനു രണ്ട് ഇൻപുട്ട് ലഭിക്കുന്നു ഇതിനു ഒരു പ്ലസ് ടെർമിനലും ഒരു മൈനസ് ടെർമിനലും ഉണ്ട് അവയുടെ വ്യത്യാസമാണ് ഇൻപുട്ട് ആയി നൽകുന്നത് ഇവയുടെ പൊട്ടൻഷ്യൽ ഗ്രൌണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവിടെ ലഭിക്കുന്ന വോൾട്ടേജ് V V നു തുല്യമായ ഒരു കൂടിയ വോൾട്ടേജ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഒരു മോട്ടോർ വൈൻഡിങ് ടെമ്പറേച്ചർ അളക്കണം എന്ന് കരുതുക ഇത്തരം കൂടിയ വോൾട്ടേജസ് എഡി കൺവെർട്ടറിലേക്ക് ബന്ധിപ്പിച്ചാൽ ഇതു കേടുവരും അതിനാൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ടിൽ നിന്നും ഗാൽവനിക്കലി ഒറ്റപ്പെടുത്തുന്ന ഒരു ഐസലേഷൻ സർക്യൂട്ട് ഉപയോഗിക്കണം ഐസലേഷനു വിവിധ മാർഗങ്ങൾ ലഭ്യമാണ് ഒപ്റ്റിക്കൽ കപാസിറ്റർ ബേസ്ഡ് ട്രാൻസ്ഫോർമർ ബേസ്ഡ് ഇൻഡക്റ്റീവ് കപ്ലിങ് തുടങ്ങിയവ അടുത്തത് ഫിൽറ്ററിംഗ് ആണ് നോയ്സ് ഇല്ലാതാക്കാനാണ് ഇത് ആവശ്യം ആൻറി അലിയാസിങ് എന്ന പ്രക്രിയയ്ക്കു കൂടി ഇത് ആവശ്യമാണ് അടുത്തത് ലീനിയറൈസേഷൻ ആണ് സിഗ്നൽ കണ്ടീഷണറിൽ തന്നെ ലീനിയറൈസേഷൻ ചെയ്യാൻ സാധിക്കും ഡിജിറ്റൽ ഡേറ്റ അക്വിസിഷന്റെ ഒരു പ്രയോജനം ലീനിയറൈസേഷൻ എളുപ്പത്തിൽ സോഫ്റ്റ്വെയറിൽ ചെയ്യാം എന്നുള്ളതാണ് എഡി കൺവെർഷനു മുമ്പേ ഓരോ അനലോഗ് ചാനലും ഇങ്ങനെയാണ് കണ്ടീഷൻ ചെയ്യുന്നത് ഏതു ഡേറ്റ അക്വിസിഷൻ സിസ്റ്റത്തിനും അനലോഗ് ചാനൽസ് ഒരേസമയം സ്വീകരിക്കാൻ സാധിക്കും ഇത് മൾട്ടിപ്ലക്സ്സിങ് എന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ചെയ്യുന്നത് പൊതുവേ അനലോഗ് സിഗ്നലിന്റെ ഈ നാലു ചാനലുകളും നാലു ഇൻപുട്ടിലേക്ക് നൽകുന്നു അഡ്രസ്സ് സിഗ്നലുകളെ ആശ്രയിച്ച് ഇലക്ട്രോണിക്സ് സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് ഈ അഡ്രസ്സ് 00 01 10 11 എന്നിങ്ങനെ ആയിരിക്കും ഈ സ്വിച്ച് അടച്ചാൽ ഈ സിഗ്നൽ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇത് സാമ്പിൾ ആൻഡ് ഹോൾഡിലേക്ക് പോകുന്നു അതിനുശേഷം എ ഡി കൺവെർഷൻ ചെയ്യപ്പെടുന്നു അതേപോലെ മറ്റു സിഗ്നൽസ് എല്ലാം ഇങ്ങനെ ചെയ്യാവുന്നതാണ് ടൈം ഇന്റർവൽ Δ T ഡെൽറ്റ ടി ആണെന്ന് കരുതുക ടൈം ഇന്റർവലിനെ നാലായി ഭാഗിച്ച് ഈ നാല് സ്വിച്ചസ് ഓരോന്നായി ഈ സമയത്തിനകത്ത് ബന്ധിപ്പിച്ചാൽ ഓരോ ടൈം ഇന്റർവല്ലിലും ഈ നാലു സിഗ്നൽസ് നിങ്ങൾക്ക് ലഭിക്കും ടൈമിങിലെ വ്യത്യാസങ്ങൾ അവഗണിച്ചാൽ ഈ നാല് വാല്യൂസും ടൈം ഇന്റർവൽ Δ T യുടെഡെൽറ്റ ടി ആരംഭത്തിൽ നിലനിന്നിരുന്നതായി ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതാൻ സാധിക്കും ഇതാണ് മൾട്ടിപ്ലക്സിംഗ് അടുത്തതായി സാമ്പിൾ ആൻഡ് ഹോൾഡ് ആണ് ഹോൾഡിന്റെ ആവശ്യം എന്തെന്നാൽ എ ഡി കൺവെർട്ടർ സിഗ്നലിൽ രൂപ മാറ്റം വരുത്തുമ്പോൾ സിഗ്നൽ ഇൻപുട്ടിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട് ഈ ജോലി സ്വിച്ച് ചെയ്യണമെന്നില്ല കാരണം ഓൺ ഓഫ് ചെയ്യാൻ സ്വിച്ച് ഒരു നിശ്ചിത സമയം എടുക്കുന്നുണ്ട് ഇതിനാൽ അധികമായി ഒരു സർക്യൂട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ സർക്യൂട്ട് വോൾട്ടേജ് സെൻസ് ചെയ്യുന്നു ഇതിനെയാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് എന്നു വിളിക്കുന്നത് ഈ സർക്യൂട്ട് വോൾട്ടേജ് വാല്യുവിനെ ഹോൾഡ് ചെയ്യുന്നു സ്വിച്ച് തുറക്കുമ്പോൾ ഈ വാല്യൂ അവിടെ നിലനിൽക്കും സ്വിച്ച് തുറന്നാലും എ ഡി കൺവെർട്ടറിന് ഈ വാല്യു കാണാൻ സാധിക്കും അടുത്ത ഡെൽറ്റ ടി ബൈ ഫോർ സമയം കഴിഞ്ഞാൽ സ്വിച്ച് അടക്കപ്പെടും ഇതിനെയാണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സമ്പ്രദായം എന്നു വിളിക്കുന്നത് സർക്യൂട്ടിലെ ഒരു പ്രത്യേക സമയത്തെ വാല്യൂ ഒരു നിശ്ചിത ഇടവേളയിൽ നിലനിർത്തപ്പെടുന്നു ഇതിനെ ആണ് സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്നു വിളിക്കുന്നത് സ്വിച്ചിങ് പോയന്റിൽ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് സ്വിച്ച് അടക്കുന്നത് അങ്ങനെയാണ് സാമ്പിൾസ് ലഭിക്കുന്നത് ഇത് ചാനൽ 1 ഇത് ചാനൽ 2 ഇത് ചാനൽ 3 ഇത് ചാനൽ 4 ഇത് വീണ്ടും ചാനൽ 1 എന്നിവയുടെ ഔട്ട്പുട്ട്സ് ആണ് അതേസമയം ഹോൾഡ് സർക്യൂട്ട് ഔട്ട്പുട്ട് ഒരു നിശ്ചിത സമയത്തേക്ക് നിലനിൽക്കുന്നതായി കാണാം ഓരോ പുതിയ വാല്യൂസ് സെൻസ് ചെയ്തു ഒരു നിശ്ചിത സമയത്തേക്ക് നിലനിർത്തുന്നു ഹോൾഡ് ചെയ്തില്ലെങ്കിൽ കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻപുട്ട് സിഗ്നൽ ഇല്ലാതായാൽ എ ഡി കൺവെർഷനിൽ ചിലപ്പോൾ എറർ വരാം സിഗ്നൽ കണ്ടീഷൻഡ് ഇൻപുട്ട് എ ഡി കൺവെർട്ടർ ഇൻപുട്ട് എന്നിവയുടെ ഇടയിലുള്ള ബ്ലോക്ക് രണ്ടു കാര്യങ്ങൾ ചെയ്യുന്നു ആദ്യമായി ഇത് വിവിധ ചാനലുകളെ മൾട്ടിപ്ലക്സ് ചെയ്യുന്നു രണ്ടാമതായി സാമ്പിൾ ആൻഡ് ഹോൾഡ് ചെയ്യുന്നു ഇത് രണ്ടു തരത്തിൽ ചെയ്യാം ഏതു മാർഗ്ഗമാണ് നാം സ്വീകരിക്കുക എന്നത് എത്ര വേഗത്തിലാണ് നിങ്ങളുടെ സിഗ്നൽ മാറുന്നത് എത്ര വേഗത്തിലാണ് നിങ്ങളുടെ സാംപ്ലിങ് ഫ്രീക്വൻസി എന്നീ രണ്ടു കാര്യങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത് ഇതൊരു അനലോഗ് ഇൻപുട്ട് സബ് സിസ്റ്റം ആണ് ഇവിടെയാണ് എ ഡി കൺവെർട്ടർ നിങ്ങൾ കാണുന്നത് ഇവിടെ ഇൻപുട്ട് സിഗ്നൽ ഇവിടെ സിഗ്നൽ കണ്ടീഷനിംഗ് ഇവിടെയാണ് എഡി കൺവെർട്ടർ ഇവിടെ ഓരോ ചാനലിലും മൾട്ടിപ്ലക്സർ ആവശ്യമാണ് ഇത് ആൻറി അലിയാസിങ് ഫിൽറ്റർ ആണ് ഇതിൻറെ ട്രാൻസിയൻറ് റെസ്പോൺസ് വേഗത്തിൽ ആണെങ്കിൽ ഒരു ഫിൽറ്റർ മാത്രം മതിയാകും അതല്ലെങ്കിൽ ഓരോ ചാനലിലും ഓരോ ഫിൽട്ടർ വേണ്ടിവരും അതിനുശേഷം ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് ആംപ്ലിഫയർ ഉണ്ട് ആൻറി അലിയാസിങ് ഫിൽറ്റർ സാമ്പിൾ ആൻഡ് ഹോൾഡ് ആംപ്ലിഫയർ എന്നിവ ഓരോന്നു വീതം മാത്രം ഉപയോഗിക്കുന്നതിനാൽ മുതൽമുടക്ക് ഇവിടെ ലാഭിക്കാൻ ആകും വ്യത്യാസം എന്തെന്നാൽ ഡെൽറ്റ ടിയുടെ അവസാനം മാത്രമാണ് ഈ വാല്യൂസ് നമുക്ക് ലഭിക്കുക ഈ 4 വാല്യൂസ് ഡെൽറ്റ ടിയെ 4 തവണ സാമ്പിൾ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സാമ്പിൾസ് കൃത്യമായ ഒരേ ടൈം ഇൻസ്റ്റന്റിൽ ഉള്ളവയല്ല ഇത് പ്രശ്നം അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് എന്നിവ ഉപയോഗിക്കുന്നത് ചെലവ് കുറയ്ക്കും അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിടെക്ചർ ഉപയോഗിക്കാം ഇത് സ്വീകാര്യമല്ലെങ്കിൽ അടുത്ത ആർക്കിടെക്ചർ ഉപയോഗിക്കാം സൈമുൽട്ടാനിയസ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൽ സിഗ്നൽ കണ്ടീഷനിംഗിനുശേഷം ഓരോ ചാനലിനും ഓരോ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഉണ്ട് ഇവിടെ കാണിക്കാത്ത ഒരു കാര്യം എന്തെന്നാൽ ഒരു കൺട്രോൾ സിഗ്നൽ എല്ലാ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിലേക്കും നൽകിയിട്ടുണ്ട് അതിനാൽ എല്ലാ ചാനലിലും ഒരേസമയം സാംപ്ലിങ് ചെയ്യാൻ സാധിക്കുന്നു അതിനുശേഷം ഹോൾഡ് ചെയ്തു എ ഡി കൺവെർട്ടറിലേക്ക് റീഡ് ചെയ്യപ്പെടുന്നു ഇത് കുറച്ച് വൈകിയാലും ടൈം സിൻക്രണസ് ആണ് അതായത് ആ 4 വാല്യൂസ് ഒരേ സമയത്തുള്ള പ്രൊസസ്സ് വേരിയബിളിനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇവ ഒരേ സമയം സാമ്പിൾ ചെയ്യപ്പെട്ട് ഒരേ സമയം ഹോൾഡ് ചെയ്യപ്പെട്ട് സീരിയലി അല്ലെങ്കിൽ ഒന്നിനുപിറകെ ഒന്നായി റീഡ് ചെയ്യപ്പെടുന്നു കാരണം നമുക്ക് ഒറ്റ എ ഡി കൺവെർട്ടർ മാത്രമാണ് ഉള്ളത് ഒന്നിലധികം എ ഡി കൺവെർട്ടർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവ വളരെ വേഗതയേറിയതാണ് ചിലവേറിയതും ആണ് അതിനാൽ ഒന്നിലധികം സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഉപയോഗിക്കാവുന്നതാണ് എ ഡി കൺവെർട്ടർ ഒന്നു മാത്രം മതിയാകും